സുഹൃത്തുക്കളെ റഫ്രിജറേഷൻ ശീതീകരണ സൈക്കിളുകളെ ക്കുറിച്ചുള്ള രണ്ടാമത്തെ ലക്ചർലേക്ക് വീണ്ടും സ്വാഗതം ഇന്നലത്തെ പ്രഭാഷണത്തിൽ റഫ്രിജറേഷൻ എന്ന ആശയം അവതരിപ്പിച്ചു കൂടാതെ റഫ്രിജറേഷന്റെ ആവശ്യകതയും അവിടെ നിങ്ങൾ മനസ്സിലാക്കി ശീതീകരണത്തിന്റെ ലക്ഷ്യം ഒരു സ്ഥലത്തിന്റെ താപനില ചുറ്റുമുള്ളതിനേക്കാൾ കുറയ്ക്കുക മാത്രമല്ല അത് നിലനിർത്തുകയുമാണ് കുറഞ്ഞ താപനിലയുള്ള മേഖല ഉത്പാദിപ്പിക്കുന്നത് വളരെ പ്രയാസകരമല്ലെങ്കിലും കുറഞ്ഞ താപനില നിലനിർത്തുന്നത് വളരെ ബുദ്ധിമുട്ടാണ് കാരണം സ്വാഭാവികമായും ചൂട് എല്ലായ്പ്പോഴും ഉയർന്ന താപനിലയിൽ നിന്ന് കുറഞ്ഞ താപനിലയിലേക്ക് ഒഴുകുന്നു അതിനാൽ കുറഞ്ഞ താപനിലയിൽ നിന്ന് തുടർച്ചയായി ചൂട് വേർതിരിച്ചെടുത്ത് അതിനെ ചുറ്റുപാടിലേക്ക് നൽകണം ആ ആവശ്യത്തിനായി റിവേഴ്സ് ഹീറ്റ് എഞ്ചിൻ എന്ന ആശയത്തിലേക്ക് നയിക്കുന്ന തെർമോഡൈനാമിക്സിന്റെ രണ്ടാമത്തെ നിയമമനുസരിച്ച് കുറച്ച് വർക്ക് ഇൻപുട്ട് ആവശ്യമാണ് അത് റഫ്രിജറേഷൻ അല്ലെങ്കിൽ ഹീറ്റ് പമ്പ് സൈക്കിളുകൾ കൂടിയാണ് ഇന്നലെ നമ്മൾ റെഫ്രിജെറേഷൻൻറെ പ്രായോഗിക തലങ്ങൾ കുറഞ്ഞ താപനിലയുള്ള ഉള്ള മേഖലകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള വിവിധ മാർഗങ്ങൾ എന്നിവ ചർച്ച ചെയ്തു അതിൽ ഫേസ് ചേഞ്ച് പ്രോസസ്സ്ന്റെ വിവിധ പ്രായോഗിക തലങ്ങൾ ആയിരുന്നു ഏറ്റവും സാധാരണയായി ഉണ്ടായിരുന്നത് അപ്പോൾ പറഞ്ഞ വിവിധ പ്രോസസറുകൾ പ്രായോഗികതലത്തിൽ ഉപയോഗത്തിൽ ഉണ്ടെങ്കിലുംഫേസ് ചേഞ്ച് പ്രോസസ് ആണ് മിക്കവാറും ശീതീകരണത്തിന് ഉപയോഗത്തിലുള്ളത് ഉ മിക്കവാറും എന്നല്ല റഫ്രിജറേഷൻ സിസ്റ്റത്തിൻറെ 90 കേസിലും ഈ ഫേസ് ചേഞ്ച് പ്രോസസ് തന്നെയാണ് ഉപയോഗിക്കുന്നത് അവിടെയും കൂടുതലും ഇവിടെ നിലനിർത്തുന്നത് വേപ്പർ കംപ്രഷൻ ശീതീകരണ ചക്രമാണ് ഇവിടെ ഒരു കംപ്രസ്സർ ഉപയോഗിച്ച് വേപ്പർ കംപ്രസ് ചെയ്യും അത് 2 പ്രഷർ ലെവലിന് ഇടയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു ഒന്ന് ബാഷ്പീകരണ മർദ്ദം ഇവപൊറേഷൻ പ്രഷർ മറ്റൊന്ന് കണ്ടൻസർ മർദ്ദം അവിടെ ഏറ്റവും അനുയോജ്യമായ സൈക്കിൾ റിവേഴ്സ് കാർനോട്ട് സൈക്കിൾ ആണ് ഇത് പരമ്പരാഗത കാർനോട്ട് സൈക്കിളിന് വിപരീതമാണ് ഇവിടെ ദിശകൾ നേരെ വിപരീതമായി മാറുന്നു

ഹീറ്റ് വർക്ക് എന്നിവയുടെ ദിശയും ഓരോ പ്രവർത്തനങ്ങളുടെ ദിശയും ഇവിടെ നേർവിപരീതമാണ് ആയതിനാൽ ഇവയ്ക്ക് താഴ്ന്ന താപനില മേഖലയിൽനിന്ന് ചൂടിനെ വലിച്ചെടുക്കാൻ കഴിയും ഇവിടെ നമ്മൾ പറയുന്ന ഏറ്റവും താഴ്ന്ന താപനില ഇവപൊററ്റർ താപനിലയാണ് TE ഉയർന്ന താപനില കണ്ടൻസർ താപനിലയാണ് TC അതിനാൽ റഫ്രിജറേറ്റർ കുറഞ്ഞ താപനിലയുള്ള മേഖലയിൽ നിന്നും QE ഊർജ്ജം വലിച്ചെടുക്കാൻ കഴിയും കണ്ടൻസർ ഇൽ Qc ചുറ്റുപാടിലേക്കും കംപ്രസ്സർ ലേക്കും നൽകുകയും ചെയ്യും ഇതാണ് കംപ്രഷൻ പ്രോസസ് ഇവിടെ കംപ്രസ്സർൻറെ ദൌത്യം ഇവപൊററ്റർ പ്രഷർ കണ്ടൻസർ പ്രഷർ ലേക്ക് മാറ്റുകയാണ് എന്തിനെന്നാൽ ഇവപൊററ്റർ പ്രഷറിന്Psat തത്തുല്യമായ സച്ചുറേഷൻ താപനിലTE നമുക്ക് വേണ്ട ടാർജറ്റ് താപനിലയെക്കാൾ കുറവായിരിക്കണം അതുപോലെ കണ്ടൻസർ പ്രഷറിന് തത്തുല്യമായ കണ്ടൻസർ താപനില TC ചുറ്റുപാടുമുള്ള താപനിലയെക്കാൾ കൂടുതലായിരിക്കണം അതുകൊണ്ട് കംപ്രസ്സർൻറെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് പ്രഷറിന് ഇടയിൽ പ്രവർത്തിക്കുകയാണ് അല്ലെങ്കിൽ ഈ രണ്ട് പ്രഷർ ലെവലിൽ വ്യത്യാസം കൊണ്ടുവരിക എന്നതാണ് റിവേഴ്സ് ഹീറ്റ് എന്ജിന് ഏറ്റവും അനുയോജ്യമായ സൈക്കിളാണ് റിവേഴ്സ് കാരനോട്ട് സൈക്കിൾ അത് ഏറ്റവും മികച്ച പ്രവർത്തനക്ഷമത നൽകുമെങ്കിലും അത് പ്രായോഗികമായി കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് നമ്മൾ ഇന്നലെ പഠിച്ച അതിൻറെ COP എഴുതുകയാണെങ്കിൽ റിവേഴ്സ് കാർനട്ട് സൈക്കിളിൻറെ പ്രായോഗിക ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് അതിലുള്ള 2 ഐസ്എൻട്രോപിക് പ്രവർത്തനങ്ങളാണ് ആണ് രണ്ട് താപ കൈമാറ്റ പ്രക്രിയകൾ ഐസോതെർമൽ ആണെങ്കിലും അവ ഐസോബാറിക് സ്വഭാവമുള്ളവയാണ് കാരണം ഇവ രണ്ടും ഫേസ് ചേഞ്ച് മേഖലയ്ക്കുള്ളിൽ സംഭവിക്കുന്നു അതിനാൽ അവ നേടുന്നത് പ്രായോഗികമായി വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എന്നാൽ ഒരു കംപ്രഷൻ പ്രക്രിയ സാച്ചുറേറ്റഡ് മിശ്രിതത്തിൽ നിന്ന് ആരംഭിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് കൂടാതെ എക്സ്പാൻഷൻ പ്രക്രിയ സാച്ചുറേറ്റഡ് ദ്രാവകത്തിൽ നിന്നും ആരംഭിച്ചു അത് വികസിച്ചു ക്വാളിറ്റി കുറഞ്ഞ മിശ്രിതം ആകുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ആ പ്രശ്നം ഇല്ലാതാക്കാൻ പലപ്പോഴും ഈ ബാഷ്പീകരണ പ്രക്രിയ സാച്ചുറേറ്റഡ് വേപ്പർ വര വരെ തുടരാൻ അനുവദിക്കും അതായത് പോയിന്റ് 2 വരെ അവിടെ നിന്ന് കംപ്രഷൻ പ്രക്രിയ ആരംഭിച്ച് താപനില TC വരെ എത്തുന്നു അതായത് പോയിൻറ് 3' വരെ ശേഷം 1 മുതൽ 2' വരെ ബാഷ്പീകരണ പ്രക്രിയയും 2 മുതൽ 3' വരെ കംപ്രഷനും നടക്കുന്നു നമുക്ക് അവ എളുപ്പത്തിൽ ലഭിക്കും എന്നിരുന്നാലും കണ്ടെൻസേഷൻ പ്രക്രിയയിലാണ് പ്രശ്നം സംഭവിക്കുന്നത് കാരണം 3 ൽ നിന്ന് പോയിൻറ് 4 ലേക്ക് നീങ്ങണമെങ്കിൽ 3 എന്ന പോയിൻറ് 3 ലേക്ക് മാറണം ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം ഇവിടെ ഐസോതെർമൽ താപ കൈമാറ്റം നടത്താൻ ശ്രമിക്കുമ്പോൾ സിസ്റ്റം നിരന്തരം ഉയർന്ന മർദ്ദ മേഖലയിലേക്ക് നീങ്ങുന്നു അതിനാൽ അടിസ്ഥാനപരമായി നമ്മൾ ഒരു കംപ്രസ്സർ രൂപകൽപ്പന ചെയ്യണം അത് ഒരു ഐസോതെർമൽ ഹീറ്റ് എക്സ്ചേഞ്ചറായി കൂടെ പ്രവർത്തിക്കണം അത് പ്രായോഗികമായി സാധ്യമല്ല ഈ ആവശ്യത്തിനായി നമ്മൾ ഈ സൈക്കിളിനെ സ്റ്റാൻഡേർഡ് സാച്ചുറേറ്റഡ് സിംഗിൾ സ്റ്റേജ് സൈക്കിൾ അല്ലെങ്കിൽ SSS സൈക്കിൾ ആക്കി മാറ്റുന്നു നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ സൈക്കിളിനെ നമ്മൾ മുൻപ് എടുത്ത സൈക്കിളുമായി താരതമ്യം ചെയ്താൽ ബാഷ്പീകരണ പ്രക്രിയ അല്ലെങ്കിൽ ഇവപൊറേഷൻ സാച്ചുറേറ്റഡ് വേപ്പർ സ്റ്റേജ് വരെ നീണ്ടു പോകുന്നു ഇവിടെ നമുക്ക് ഒരു അധികമായ പ്രക്രിയ ഉണ്ട് റിവേഴ്സ് കാർനോട് സൈക്കിളും SSS സൈക്കിളും തമ്മിൽ ഇതിൽ ഉള്ള 2 വ്യത്യാസങ്ങൾ ഞാനിവിടെ സംക്ഷിപ്തമായി പറയാം ഇവിടെ താപ കൈമാറ്റം പ്രക്രിയ ഐസൊതെർമൽ ആണ് പക്ഷേ അവിടെ അത് ഐസൊബാരിക് ആണ് കണ്ടെൻസേഷൻ പ്രക്രിയയും ഇവപൊറേഷൻ പ്രക്രിയയും രണ്ടും ഐസൊബാരിക് ആണ് കംപ്രഷൻ നടക്കുമ്പോൾ അവസാനത്തെ താപനില TC അല്ല T2 ആണ് പക്ഷേ ഇത് TC താപനിലയെകാൾ കൂടുതലാണ് TC എന്നത് ഈ പ്രത്യേക താപനിലയെ സൂചിപ്പിക്കുന്നു TE റിവേഴ്സ് കാർനോട്ട് സൈക്കിളിനായി ഉപയോഗിക്കുന്ന നൊട്ടേഷനുമായി പൊരുത്തപ്പെടുന്നു താഴ്ന്ന താപനില TE ആയി തുടരുമ്പോഴും ഉയർന്ന താപനില TC ഇതിനേക്കാൾ ആണ് എന്നതുകൊണ്ട് ഉയർന്ന താപനിലയായ T2 ഇവിടെ TC എന്നതിന് തത്തുല്യമായ സാച്ചുറേഷൻ താപനില ആയി മാറുന്നു അതുകൊണ്ട് 𝑇2 𝑇𝑠𝑎𝑡 𝑃𝑐 മുകളിൽ തന്നിരിക്കുന്ന അതിനെ കാർനോട്ട് സൈക്കിളുമായി താരതമ്യപ്പെടുത്തിയാൽ മുഴുവൻ പ്രക്രിയയും സാച്ചുറേഷൻ ഡോമിൽ ഒതുക്കി നിർത്തിയിരിക്കുന്നു പക്ഷേ ഇതിനെ ഈ സാച്ചുറേഷൻ ഡോമിന് പുറത്തേക്ക് എത്തിച്ചാൽ T3 അത് TC എന്നതിനേക്കാൾ വലുതായിരിക്കും അല്ലെങ്കിൽ എനിക്ക് പറയാം Tsat എന്നതിനേക്കാൾ വലുതായിരിക്കും അതിന് തുല്യമായ മർദ്ദം ആയിരിക്കും PC കാരണം അവസാനത്തെ മർദ്ദംT3 അതിന് തുല്യമായ സാച്ചുറേഷൻ മർദ്ദം അത് PC അതിനേക്കാൾ കുറവായിരിക്കും അതുകൊണ്ട് നമ്മൾ തുടർച്ചയായി ഉയർന്ന മർദ്ദത്തിൽ ഉള്ള മേഖലയിലേക്കാണ് പോകുന്നത് പക്ഷേ ഈ മുഴുവൻ ഹീറ്റ് ട്രാൻസ്ഫർ പ്രക്രിയയും സ്ഥിരമായ മർദ്ദത്തിൽ ആണ് നടത്തപ്പെടുന്നത് രണ്ടാമത്തെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഒരു ടർബൈൻ ഇല്ല എന്നുള്ളതാണ് അത് ഒരു ത്രോട്ട്ലിങ് വാൽവ് കൊണ്ട് മാറ്റപ്പെട്ടിരിക്കുന്നു ഇവിടെ നമുക്ക് പ്രോസസ് 3 4 മുൻപ് വർക്ക് ഔട്ട്പുട്ട് ഒന്നും തന്നെ ഇല്ല ഞാൻ ആദ്യം കണ്ടെൻസേഷൻ പ്രക്രിയയെ പറ്റി പറയാം ഈ പ്രക്രിയയിൽ അധികം ഉള്ള ചൂട് പുറം തള്ളണം പക്ഷേ ബാഷ്പീകരണ പ്രക്രിയ ത്രോട്ട്ലിങ് സാന്നിധ്യംകൊണ്ട് ഹീറ്റ് ട്രാൻസ്ഫർ കുറയുന്നു ഇവിടെ QE കുറവുണ്ട് ഈ ഏരിയ A2 എന്ന് വിളിച്ചാൽ A1 ഏരിയ ഉള്ള നമ്മുടെ മുൻപിൽ എടുത്ത ക്ലാസിൻറെ നൊട്ടേഷൻ ഉമായി സാമ്യമുണ്ട് ഇവിടെ ഈ സൈക്കിൾൻറെ ക്ഷമത അത് ഇങ്ങനെ എഴുതാം അതിനാൽ A1 A2 എന്നിവയിലെ ഏതെങ്കിലും വർദ്ധനവ് സൈക്കിളിന്റെ കാര്യക്ഷമത കുറയ്ക്കും അതനുസരിച്ച് ഈ SSS സൈക്കിളിനുള്ള COP എല്ലായ്പ്പോഴും കാർനോട്ട് സൈക്കിളിനുള്ള COP യേക്കാൾ കുറവായിരിക്കും എന്നാൽ ഇപ്പോഴും ഇത് പ്രായോഗികമായി കൂടുതൽ പ്രസക്തമാണ് കാരണം താപ കൈമാറ്റം സമയത്ത് നമുക്ക് കംപ്രഷൻ പ്രക്രിയ ഒന്നും കൈകാര്യം ചെയ്യേണ്ടതില്ല ഇവിടെ രണ്ട് ഹീറ്റ് ട്രാൻസ്ഫർ പ്രക്രിയയും നടക്കുന്നത് സ്ഥിരമായ മർദ്ദത്തിൽ ആയിരിക്കും കൂടാതെ പ്രശ്നകരമായ ടർബൈൻ വിപുലീകരണത്തെ കൈകാര്യം ചെയ്യേണ്ടതില്ല പകരം അത് ത്രോട്ടിലിംഗ് വാൽവ് ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുകയാണ് തീർച്ചയായും ആ ടർബൈൻ വർക്ക് ഔട്ട്പുട്ടിലേക്ക് നിങ്ങൾക്ക് കൺസെപ്ച്വൽ റിവേഴ്സ് കാർനോട്ട് സൈക്കിളിൽ നിന്ന് ലഭിക്കുമായിരുന്നുവെങ്കിലും ഇത് പ്രായോഗികമായി കൂടുതൽ നിലനിൽക്കുന്നതാണ് അതിനാൽ പ്രായോഗിക പ്രവർത്തനങ്ങൾക്കായി സ്റ്റാൻഡേർഡ് സാച്ചുറേറ്റഡ് സിംഗിൾ സ്റ്റേജ് സൈക്കിൾ ഉപയോഗിക്കുന്നു വാസ്തവത്തിൽ ഇതിന്റെ ഉപയോഗം വളരെ സാധാരണമാണ് മിക്കപ്പോഴും ഇത് ഒരു വേപ്പർ കംപ്രഷൻ റഫ്രിജറേഷൻ സൈക്കിൾ എന്ന് വിളിക്കപ്പെടുന്നു അതിനാൽ Ts ഉം Ph ഡയഗ്രാമും ഇവിടെ കാണിച്ചിരിക്കുന്നു ത്രോട്ട്ലിംഗ് പ്രക്രിയ ഒരു സ്ഥിരമായ എന്തൽപി പ്രക്രിയയാണ് അതിനാൽ ഈ സൈക്കിളിൽ രണ്ട് സ്ഥിരമായ മർദ്ദവും ഒരു സ്ഥിരമായ എന്തൽപി പ്രക്രിയയും അടങ്ങിയിരിക്കുന്നു അതിനാൽ ഈ Ph ഡയഗ്രാമിൽ ഇത് പ്രതിനിധീകരിക്കുന്നത് വളരെ സൌകര്യപ്രദമാണ് സൈദ്ധാന്തികമായി ഇത് വിശകലനം ചെയ്യണമെങ്കിൽ ചില അനുമാനങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട് ഇവിടെ ഇവപൊറേറ്റർ കംപ്രസർ കണ്ടൻസർ ത്രോട്ടിലിംഗ് വാൽവ് എന്നീ നാല് ഘടകങ്ങളുണ്ട് അവയെല്ലാം സ്റ്റഡി സ്റ്റേറ്റ് ഉപകരണങ്ങളാണെന്ന് ഞങ്ങൾ അനുമാനിക്കുന്നുഅതിനാൽ ഉപകരണങ്ങൾ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന പൈപ്പ് ലൈനുകളിൽ മർദ നഷ്ടമോ ഊർജ്ജ ചോർച്ചയോ ഉണ്ടാവില്ല അതിനാൽ പൈപ്പ്ലൈനുകളിൽ നിന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള മർദ്ദം ചൂട് ചോർച്ച എന്നിവ അവഗണിക്കാവുന്നതാണ് കംപ്രഷൻ പ്രക്രിയ രണ്ടും ഐസെൻട്രോപിക് ആണെന്ന് അനുമാനിക്കുകയും ശീതീകരണ ഉപകരണം ആ ബാഷ്പീകരണത്തിലൂടെയും കണ്ടൻസറിലൂടെയും കടന്നുപോകുമ്പോൾ ഉണ്ടാകാവുന്ന ഏതെങ്കിലും തരത്തിലുള്ള മർദ്ദം അവഗണിക്കുകയുമാണ് ചൂട് കൂട്ടിച്ചേർക്കലും ചൂട് നിരസിക്കലും ഐസോബാറിക് ആണ് അവയ്ക്കിടയിൽ മർദ്ദം കുറയുന്നില്ല മാത്രമല്ല കൈനറ്റിക് പൊട്ടൻഷ്യൽ ഊർജ്ജങ്ങളിലെ മാറ്റങ്ങളെ അവഗണിക്കുകയാണ് തെർമോഡൈനാമിക്സ് ലെ സ്റ്റഡി സ്റ്റേറ്റ് പ്രക്രിയയ്ക്കായി ഈ സാഹചര്യം വിശകലനം ചെയ്യാൻ ശ്രമിക്കുന്നു ഒരൊറ്റ ഇൻലെറ്റ് ഒരൊറ്റ ഔട്ട്ലെറ്റ് ഉപകരണത്തിനായി തെർമോഡൈനാമിക്സിന്റെ ആദ്യ നിയമം പ്രയോഗിച്ചാൽ i ഇൻലെറ്റ് അവസ്ഥയെ പരാമർശിക്കുമ്പോൾ കൈനറ്റിക് പൊട്ടൻഷ്യൽ ഊർജ്ജങ്ങളിലെ മാറ്റങ്ങൾ ഞങ്ങൾ വളരെ നേർത്തതായി കണക്കാക്കുന്നു അതിനാൽ ഇത് ഇപ്രകാരം ആകും അതിനാൽ ഓരോ ഘടകങ്ങളും പ്രത്യേകം വിശകലനം ചെയ്യാൻ ശ്രമിക്കാം ആദ്യം ബാഷ്പീകരണം അതിനാൽ 4 മുതൽ 1 വരെയുള്ള ഇവപൊറേഷൻ പ്രക്രിയ ഐസോബറിക് ആണ് കൂടാതെ ഒരു താപ കൈമാറ്റം നടക്കുന്നു പ്രോസസ്സ് സമയത്ത് മർദ്ദം മാറാത്തതിനാലും ഇത് ഒരു സ്ഥിരമായ ഫ്ലോ പ്രോസസ് ആയതിനാലും സ്ഥിരമായ ഒരു ഫ്ലോ പ്രോസസ്സിന് w ഇങ്ങനെ എഴുതാമെന്ന് നിങ്ങൾ ഓർക്കുന്നുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു മർദ്ദം മാറ്റമൊന്നും ഇല്ലാത്തതിനാൽ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇത് പൂജ്യത്തിന് തുല്യമായിരിക്കും അതിനാൽ ഇത് ഇങ്ങനെ എഴുതാം Q dot E സിസ്റ്റത്തിലേക്ക് ചേർക്കപ്പെട്ട താപത്തിൻറെ അളവ് ആണ് അതിനാൽ ഇത് പോസിറ്റീവ് ആണ് ഈ പ്രത്യേക കാര്യത്തെ സ്പെസിഫിക് റഫ്രിജറേഷൻ ഇഫക്റ്റ് എന്ന് വിളിക്കുന്നു QdotE എന്നത് റഫ്രിജറേഷൻ ഇഫക്റ്റാണ് കാരണം നമ്മൾ സംസാരിക്കുന്നത് ശീതീകരണ ചക്രത്തെക്കുറിച്ചാണ് അവിടെ ചൂട് വലിച്ചെടുക്കുക എന്നതാണ് ലക്ഷ്യം അതിനാൽ Q dot E ഞങ്ങളുടെ ലക്ഷ്യമാണ് ഞങ്ങൾ അതിനെ മാസ് ഫ്ലോ റേറ്റ് കൊണ്ട് ഹരിച്ചാൽ സ്പെസിഫിക് റഫ്രിജറേഷൻ ഇഫക്റ്റ് ലഭിക്കുന്നു ഇപ്പോൾ നമ്മൾ കംപ്രസ്സറിലേക്ക് നോക്കുകയാണെങ്കിൽ കംപ്രസ്സർ പ്രോസസ്സ് 1 മുതൽ 2 വരെയാണ് ഇത് ഐസന്റ്രോപിക് ആണെന്ന് അനുമാനിക്കുന്നു അതിനാൽ താപ കൈമാറ്റം നടക്കുന്നില്ല പകരം സിസ്റ്റത്തിന് ജോലി നൽകുന്നു അതിനാൽ WC ക്ക് തുല്യമായി ഈ Win എഴുതാം അങ്ങനെയാണെങ്കിൽ ഇവിടെ W dot C എന്നത് സിസ്റ്റത്തിന് നൽകിയ വർക്ക് ഇൻപുട്ടാണ് ഇത് സിസ്റ്റത്തിൽ നൽകിയ വർക്ക് നെഗറ്റീവ് ആണ് ആയതിനാൽ എന്തെങ്കിലും താപ കൈമാറ്റം നടക്കുന്നുണ്ടെങ്കിൽ ഇത് ചേർക്കേണ്ടതുണ്ട് എന്നാൽ ഇത് ഐസന്റ്രോപിക് ആണെന്ന് അനുമാനിക്കുന്നതിനാൽ ഈ കംപ്രഷൻ വർക്ക് ഇപ്രകാരമാണ് മുമ്പത്തെ സ്ലൈഡിൽ നിന്ന് നിങ്ങൾ വീണ്ടും എഴുതുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് കണ്ടൻസർ ഉണ്ട് കണ്ടൻസറിൽ നമുക്ക് 2 മുതൽ 3 വരെ പ്രോസസ്സ് ഉണ്ട് അത് ഐസോബറിക് ആണ് അതിനാൽ വർക്ക് ട്രാൻസ്ഫർ ഇല്ല പക്ഷേ താപ കൈമാറ്റം ഉണ്ട് ഈ താപം സിസ്റ്റം നിരസിക്കുന്നതിനാൽ ഇത് നെഗറ്റീവ് ആണ് അതിനാൽ ഇതിൽനിന്ന് നമുക്ക് ഇങ്ങനെ ലഭിക്കും അവസാനമായിത്രോട്ട്ലിംഗ് പ്രോസസ്സ് നടത്തുന്ന 3 മുതൽ 4 വരെ പ്രോസസ്സ് നോക്കാം ത്രോട്ടിലിംഗ് പ്രക്രിയയിൽ ചൂട് കൈമാറ്റം ഇല്ല വർക്ക് ട്രാൻസ്ഫർ ഇല്ല അതിനാൽ ത്രോട്ട്ലിംഗ് ഒരു ഐസന്താൽപിക് പ്രക്രിയയാണെന്ന് നമുക്കറിയാം നമുക്ക് എഴുതാം h3 h4 ഇതിൽനിന്ന് നമ്മുടെ സിസ്റ്റത്തിൻറെ കാര്യക്ഷമത നമുക്ക് എഴുതാം COP അടിസ്ഥാനത്തിൽ ഇവിടെ ടർബൈൻ ഇല്ല അതുകൊണ്ട് ഇതിനെ ഇങ്ങനെ ആക്കാം ഇവിടെ COP നമുക്ക് വേണ്ട ഔട്ട്പുട്ട് ആയി ലഭിക്കുന്നു 1 2 4 എന്നീ മൂന്ന് പോയിന്റുകളുടെ എന്തൽപിയെക്കുറിച്ചുള്ള അറിവിൽ നിന്ന് നമുക്ക് COP യുടെ മൂല്യം തിരിച്ചറിയാൻ കഴിയും നിങ്ങൾക്ക് ഏതെങ്കിലും താപ കൈമാറ്റം വർക്ക് ട്രാൻസ്ഫർ എന്നിവ കണക്കാക്കണമെങ്കിൽ ഈ എന്തൽപികളെക്കുറിച്ചുള്ള അറിവിൽ നിന്ന് അത് കണ്ടുപിടിക്കാം റഫ്രിജറേഷൻ ഇഫക്റ്റ് മറ്റൊരു തരത്തിൽ എഴുതാം Q dot E ṁ എന്നത് മാസ് ഫ്ലോ റേറ്റ് ആണ് അത് സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റഡി ഫ്ലോ പ്രക്രിയയിൽ എല്ലാ പോയിന്റുകളിലും സ്ഥായിയായി നിൽക്കുന്നു അതിനാൽ നമുക്ക് ഇത് ഇങ്ങനെ എഴുതാം ഇവിടെ ബ്രാക്കറ്റിൽ കിടക്കുന്ന വാല്യ വിനെ വോളിയം റഫ്രിജറേഷൻ എഫക്ട് എന്ന് പറയുന്നു റഫ്രിജറേഷൻ എഫക്ട് കിലോവാട്ട് ഇൽ പറയുമ്പോൾ അതിനെ റഫ്രിജറേഷൻ പേർ യൂണിറ്റ് സ്പെസിഫിക് വോളിയം ആയി പറയുന്നു ഇപ്പോൾ ഈ SSS സൈക്കിളിന്റെ പ്രകടനം വിലയിരുത്തുന്നതിന് രണ്ട് അന്തിമ താപനിലകളുടെ TC TE എന്നിവയെ നമുക്ക് പരിശോധിക്കാം അതിനാൽ ആദ്യം നമുക്ക് TC സ്ഥിരമാക്കി കൊണ്ട് ബാഷ്പീകരണ താപനില പരിശോധിക്കാം മുമ്പത്തെ സ്ലൈഡിൽ നിന്ന് അനുബന്ധ പ്രവർത്തനക്ഷമത പാരാമീറ്ററും COP ഉം എങ്ങനെ കണക്കാക്കാമെന്ന് കണ്ടു TE യുടെ പ്രഭാവം പരിശോധിക്കാം അതിനാൽ TC യുടെയും TE യുടെയും ഒരു പ്രത്യേക സംയോജനത്തിൽ ഞാൻ Ph ഡയഗ്രം പ്ലോട്ട് ചെയ്തു ഒന്നാമത്തെ കേസിൽ TE യുടെ വാല്യൂ ഇതാണ് ഇവിടെ TC സ്ഥിരമായി നിൽക്കുന്നു രണ്ടാമത്തെ കേസിനായി മറ്റൊരു TE ഒരു എടുക്കാം TE2 ഇത് TE1 നേക്കാൾ കുറവാണ് നമുക്ക് സൈക്കിൾ വരയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം ബാഷ്പീകരണ താപനില TE2 ഇതാകുമ്പോൾ പോയിൻറ് 4 ഇൽ നിന്ന് 4' ലേക്ക് വികസിക്കുന്നു ഇവിടെ നിന്ന് എക്സ്പാൻഷൻ പ്രക്രിയ ആരംഭിക്കുന്നു 1'ഇൽ എത്തുന്നു ഇത് സാച്ചുറേറ്റഡ് വേപ്പർ ലൈൻ ആണ് ഇതൊരു സ്ഥിരം മൂല്യം ആയതിനാൽ ഇതിനെ നമുക്ക് വികസിപ്പിക്കേണ്ടതുണ്ട് ഇവിടെ ഞാൻ TC എന്നും TE എന്നും എഴുതാൻ പാടില്ലായിരുന്നു മറിച്ച് മർദ്ദനത്തിൻറെ അനുബന്ധമായി വേണമായിരുന്നു എഴുതാൻ ഇതാണ് സാച്ചുറേഷൻ പ്രഷർ അല്ലെങ്കിൽ ഇതിനെ Psat എന്ന് എഴുതാം ഇത് Pc തുല്യമായ മർദ്ദമാണ് അല്ലെങ്കിൽ TC തുല്യമായ മർദ്ദമാണ് ഇത് TE1 തുല്യമായ മർദ്ദമാണ് രണ്ടാമത് അത് കുറഞ്ഞ താപനില TE2 തുല്യമായ മർദ്ദമാണ് കംപ്രഷൻ വേണ്ടി Psat എന്ന മർദ്ദം TC എന്ന താപനിലയ്ക്ക് സമാനമായിരിക്കണം നമ്മുടെ കംപ്രഷൻ ലൈൻ ഏകദേശം ഇതുപോലെ ഇരിക്കും അവസാനത്തെ താപനില 2' ൽ എത്തി അതിനുശേഷം സ്ഥിരമായ പ്രഷർ ലൈനിലൂടെ പോയിൻറ് 3 എത്തുന്നു അതിനാൽ മൂന്ന് സ്റ്റേറ്റ് പോയിന്റുകൾ മാറിക്കൊണ്ടിരിക്കുന്നു ഏകീകരണത്തിന്റെ അവസാനത്തിൽ പോയിന്റ് 3 ആയ ഒരു സ്റ്റേറ്റ് പോയിന്റ് മാത്രം മാറ്റമില്ലാതെ ഇരിക്കുന്നു അതിനാൽ ഇപ്പോൾ ഇഫക്റ്റുകൾ പരിശോധിക്കുകയാണെങ്കിൽ റഫ്രിജറേഷൻ ഇഫക്റ്റ് എന്താണ് പ്രകാരം ആണ് ഇവിടെ റഫ്രിജറേഷൻ ഇഫക്റ്റ് നൽകിയിരിക്കുന്നത് എന്തൽപി മാറ്റത്തിന്റെ വ്യാപ്തി താരതമ്യം ചെയ്യുക പോയിന്റ് 4 4 എന്നിവ സമാനമാണ് കാരണം ഇത് ത്രോട്ടിലിംഗ് പ്രക്രിയയായി നിർവചിക്കപ്പെടുന്നു എന്നാൽ ഇവിടെ 1 നെ 1 മായി താരതമ്യം ചെയ്താൽ തീർച്ചയായും 1 ഇടത്തേക്ക് മാറുന്നത് കാണാം ഇത് പോയിന്റ് 1 നേക്കാൾ കുറവുള്ള എന്തൽപി മൂല്യം ആണ് അതിനാൽ ഈ T2 ന് സമാനമായി റഫ്രിജറേഷൻ ഇഫക്റ്റ് കുറയുന്നു WdotC എന്ന കംപ്രഷൻ ജോലിയെക്കുറിച്ച്നോക്കാം ഇവിടെ നമ്മൾ താഴ്ന്ന മർദ്ദത്തിൽ നിന്ന് ഉയർന്ന മർദ്ദത്തിലേക്ക് പോകുന്നു കാരണം ബാഷ്പീകരണ മർദ്ദം കുറയുകയും അന്തിമ മർദ്ദം കണ്ടൻസർ മർദ്ദം അതേപടി തുടരുകയും ചെയ്യുന്നു അതിനാൽ WdotC വർദ്ധിക്കും ഈ രണ്ടിന്റെയും സംയോജനം COP ആണ് പക്ഷേ ത്രോട്ടിലിംഗ് അനുബന്ധ ഉപകരണത്തിന് ഇത് തീർച്ചയായും കുറയും മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം ഉയർന്ന താപനില T2 ആണ് ബാഷ്പീകരണ താപനില കുറയുന്നതുകൊണ്ട് T2 താപനില കൂടിക്കൊണ്ടിരിക്കുന്നു ഇത് എല്ലായിപ്പോഴും അഭികാമ്യമല്ല ഉയർന്ന താപനില കൂടുന്നതനുസരിച്ച് റഫ്രിജറേഷൻ എഫക്റ്റ് കുറയുന്നു കംപ്രഷൻ ജോലി കൂടുന്നു ഇത് COP കുറയ്ക്കുവാൻ ഇടയാക്കുന്നു TE എന്ന മൂല്യം എത്രയും യും ഉയർത്തി വെയ്ക്കുന്നതാണ് അഭികാമ്യം ആദ്യം നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന TE മൂല്യത്തിന് TC യുടെ എഫക്റ്റ് എന്താണെന്ന് നോക്കാം അതിനായി Ph ഡയഗ്രം വരയ്ക്കണം അതിൽനിന്ന് വിവിധ സ്റ്റേറ്റുകൾ കണ്ടുപിടിക്കാം ഇവിടെ ഇവപൊറേറ്ററിൻറെ വശത്ത് മാറ്റങ്ങളൊന്നുമില്ല ഇവപൊറേറ്റർ മർദ്ദം മാറാതെ നിൽക്കുന്നു അത്TE ക് സമാനമായ ആണ് Psat ഇത് T1 ന് സമാനമായ നിങ്ങളുടെ Tsat ആണെന്ന് പറയട്ടെ കണ്ടൻസർ താപനിലയുടെ ഉയർന്ന മൂല്യത്തിൽ മറ്റൊരു മർദ്ദവും എടുക്കുന്നു ഇത് TC2 ന് സമാനമായ Psat ആണ് അതിനാൽ ഈ പ്രത്യേക സൈക്കിളിൽ പോയിന്റ് 3 എവിടെ ആയിരിക്കും അവസ്ഥ എന്തായിരിക്കും പോയിന്റ് 3 സാച്ചുറേറ്റഡ് ലിക്വിഡ് ആണെങ്കിൽ ആ പോയിൻറ് ഏകദേശം ഇവിടെയായിരിക്കും അതിനാൽ ഇത് നിങ്ങളുടെ 3 ആണ് ത്രോട്ടിലിംഗ് പ്രക്രിയ ഇത് 4 ലേക്ക് നയിക്കും 4 മുതൽ 1 വരെ സമാനമായി തുടരും അല്ലെങ്കിൽ ബാഷ്പീകരണത്തിന്റെ അവസാന ഘട്ടം വരെ ഇത് സമാനമായി തുടരും ഇപ്പോൾ ഈ 1 മുതൽ 2' വരെ കംപ്രഷൻ പ്രക്രിയ ഈ ഉയർന്ന മർദ്ദം 2 വരെ നീളും തുടർന്ന് അവിടെ നിന്ന് കണ്ടെൻസേഷൻ പ്രക്രിയ ആരംഭിക്കും അതിനാൽ ഇവിടെ TC2 TC1 നെക്കാൾ വലുതാണ് അതിനാൽ ഈ കേസിൽ QdotE യുടെ ഫലം എന്താണ് തീർച്ചയായും ബാഷ്പീകരണത്തിൽ വലിച്ചെടുക്കുന്ന താപത്തിന്റെ അളവിൽ കുറവുണ്ടാകും QdotE കംപ്രഷൻ വർക്ക് കുറയ്ക്കുന്നു ഏറ്റവും കുറഞ്ഞ മർദ്ദം തുല്യമാണ് എന്നാൽ ഉയർന്ന മർദ്ദം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു കംപ്രഷൻ ജോലിയും വർദ്ധിക്കുന്നു ഇത് COP കുറയ്ക്കുന്നു കംപ്രസ്സർ എക്സിറ്റ് താപനില അല്ലെങ്കിൽ സൈക്കിളിന്റെ ഉയർന്ന താപനില T2 മുമ്പത്തെ കേസുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കൂടുതലാണ് അതിനാൽ ഇത് വീണ്ടും ദോഷകരമാണ് ഇത് ബാഷ്പീകരണ താപനിലയിലെ കുറവിന് സമാനമാണ് കൂടാതെ കണ്ടൻസർ താപനിലയിലെ വർദ്ധനവ് ദോഷകരമായ ഫലങ്ങൾ ഉണ്ടാക്കുന്നു അതിനാൽ TC കഴിയുന്നത്ര താഴ്ന്നതായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അന്തരീക്ഷത്തിൻറെ വിവിധ അവസ്ഥകൾ ഇതിന് മാറ്റം വരുത്തുന്നു TC ചുറ്റുപാടുമുള്ള താപനില ആയിരിക്കണം അതുകൊണ്ട് തണുപ്പ് കാലങ്ങളിൽ TC യുടെ അവശ്യത ചൂട് കാലത്തേക്കാൾ വളരെ കുറവായിരിക്കും അതിനാൽ ഒരേ ഇവപൊറേറ്റർ താപനിലയിൽ തണുപ്പ് കാലാവസ്ഥയിലെ COP ചൂടുള്ള കാലാവസ്ഥയെക്കാൾ ഉയർന്നതായിരിക്കും നമുക്ക് കുറച്ച് സംഖ്യാ സംബന്ധമായ ഉദാഹരണങ്ങൾ നോക്കാം അതിനുമുമ്പ് ഈ സിസ്റ്റത്തിൻറെ ക്ഷമത പരിശോധിക്കുവാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ അടിസ്ഥാനവിവരങ്ങൾ എന്തൊക്കെയാണെന്നു നോക്കാം നൽകിയിരിക്കുന്ന സൈക്കിളിന് നമുക്ക് TE TC എന്നീ താപനിലകൾ നൽകിയിട്ടുണ്ട് കൂടാതെ TE ക്ക് സമാനമായ hfg ഉം TC ക്ക് സമാനമായ hfg ഉം നൽകുന്നു കാരണം TE യും TC യും റഫ്രിജറന്റുകളുടെ സ്വഭാവവും അറിഞ്ഞാൽ നമുക്ക് hfg യുടെ മൂല്യം എളുപ്പത്തിൽ ലഭിക്കും ദ്രാവക ഘട്ടത്തെയും നീരാവി ഘട്ടത്തിലും സ്പെസിഫിക് ഹീറ്റ് നെപ്പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് വിവിധ ഘട്ടങ്ങളിൽ ഈ മൂല്യങ്ങൾ കണ്ടുപിടിക്കാൻ TE ഉം TC ഉം ഉപയോഗിക്കാം TE അറിയാമെങ്കിൽ ഇവപൊറേഷൻ സൈഡിലെ മർദ്ദം കണ്ടുപിടിക്കാം TE ക് സമാനമായ സാച്ചുറേഷൻ മർദ്ദമാണ് കണ്ടൻസർ വശത്ത് മർദ്ദം എന്ന് പറയുന്നത് TC ക് സമാനമായ സാച്ചുറേഷൻ മർദ്ദമാണ് PE Psat PC Psat Tc എന്ന് പറയുന്നത് ഈ പോയിൻറ്ൽ നിന്നുള്ള താപനിലയാണ് ആ സോണിലെ അല്ല പോയിൻറ് 2 ൽ നിന്ന് താപനില മാറുന്നതുകൊണ്ട് സാച്ചുറേഷൻ ഡോം വരെ പക്ഷേ ആ ഡോംൽ താപനില സ്ഥിരമായിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് മർദ്ദങ്ങൾ അറിയാം അതിൽ നിന്ന് സൈക്കിളും വരയ്ക്കാം പ്രഷർ അറിയാം മറ്റെന്ത് നമുക്ക് കണ്ടുപിടിക്കാനാകും സൈക്കിളിൽ നിന്ന് നമുക്ക് ഇവപൊറേറ്ററുടെ വശത്തെ സ്ഥിതി അറിയാം അതിൽ നിന്ന് h1 കണ്ടുപിടിക്കാം h1 എന്ന് പറയുന്നത് TE സമാനമായ hg മൂല്യമാണ് ഈ മർദ്ദത്തിലെ hf നെ പറ്റി നമുക്ക് വിവരങ്ങളൊന്നും ഇല്ലായെങ്കിൽ നമുക്ക് ഒരു റഫറൻസ് എടുക്കാം 4 1 എന്ന വര നമുക്ക് നീട്ടിവരച്ച് 1' എത്തിക്കാം ഇത് ദ്രവ വശത്ത് ആണ് അതുകൊണ്ട് 1' എന്നത് ഇവപൊറേഷൻ താപനിലയുടെ സമാനമായ സാച്ചുറേറ്റഡ് ലിക്വിഡ് ആണ് TE ക്ക് സമാനമായ hf ൻറ മൂല്യം നമുക്ക് 0kJkg എന്ന് എടുക്കാം അതുപോലെ പോലെ sf ൻറ മൂല്യം 0kJkgK എന്ന് എടുക്കാം hf| TE 0 kJkg sf| TE 0 kJkg ഇവ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ചില വ്യത്യസ്ത മൂല്യങ്ങളാണ് ഏതൊരു റഫറൻസും നിങ്ങളുടെ കണക്കുകൂട്ടലിനെ തടസ്സം ഉണ്ടാകുകയില്ല കാരണം ആത്യന്തികമായി എന്തൽപി എൻട്രോപ്പി എന്നിവയിലെ മാറ്റങ്ങളെ കൈകാര്യം ചെയ്യുന്നു അതിനാൽ നിങ്ങളുടെ h1 എന്തായിരിക്കും h1 hg hf hfg|TE നമ്മൾ പറഞ്ഞു hf പൂജ്യത്തിന് തുല്യമായിരിക്കും അതുകൊണ്ട് hfg|TE സമാനമായി s1 എന്നത് s1 sg അതേ രീതിയിൽ അത് ഇപ്പോൾ ഇങ്ങനെയാവും sfg|TE അതിനാൽ കംപ്രസ്സർ ഇൻലെറ്റിൽ സ്റ്റേറ്റ് പോയിൻറ് 1 ലെ എൻട്രോപ്പിയും എന്തൽപിയും നമുക്കറിയാം അതിനാൽ ഇപ്പോൾ കംപ്രസ്സറിൽ എക്സിറ്റ് എന്ത് ചെയ്യാനാവും നമുക്കറിയാം s1 s2 നമ്മുടെ ഈ പ്രക്രിയ ഐസ്എൻട്രോപിക് ആണ് അതു പോലെ റിവേഴ്സ്സിബിളും ആണ് അതുകൊണ്ട് δQ Tds or ds δQT ഇതിൽനിന്ന് നമുക്ക് എന്ത് എഴുതാം കംപ്രഷൻ പ്രക്രിയയ്ക്ക് s1 s2 വീണ്ടും ഇത്തരത്തിൽ എഴുതാം h3 − h1 അതായത് ഞങ്ങൾ ഈ പോയിന്റും ഈ മാത്രം എടുക്കുന്നു അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ സാദൃശ്യം ആക്കാം ദ്രാവക ഘട്ടത്തിനായുള്ള സ്പെസിഫിക് ഹീറ്റ് സ്ഥിരമായി നിലനിൽക്കുകയാണെങ്കിൽ ഇത് ഏകദേശം ഇപ്രകാരം കണക്കാക്കാം h3 − h1 Cpliq T3 T1 Cpliq TC - TE സ്പെസിഫിക് ഹീറ്റ് സ്ഥായി ആയും ദ്രവഘട്ടം ഇൻകംപ്രസിബിളും ആണെന്ന് അനുമാനിക്കുകയാണെങ്കിൽ അതിനെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും സമാനമായി നമുക്ക് താപനില അറിയാം അതുപോലെ h1 s1 പൂജ്യം ആണെന്ന് നമ്മൾ പറഞ്ഞു അതിൽനിന്ന് h3 s3അതിൻറെ മൂല്യം കണ്ടു പിടിക്കാൻ പറ്റും ഇനിയും കണ്ടെൻസേഷൻ പ്രോസസ്ന് എന്ത് ചെയ്യാൻ പറ്റും അതിനായി നമുക്കറിയാം 𝑄𝐶 𝑚 ℎ2 − ℎ3 or 𝑞𝐶 ℎ2 − ℎ3 ℎ2 − ℎ3 ℎ2 − ℎ2′ ℎ2′ − ℎ3 പോയിൻറ് 3 ൻറ മൂല്യങ്ങൾ നമുക്കറിയാം അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും h2 h3 അത് h2− h3 hfg|TC ഇതിനെ മുൻപിലെ ഇക്വേഷൻ ഇൽ ഇ മാറ്റം വരുത്തിയാൽ അത് ഇപ്രകാരം ആകും h2 − h2 hfg|TC എന്താണ് h2 − h2 ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് സൂപ്പർഹിറ്റഡ് വേപ്പർ പറ്റിയാണ് അതിന് സ്ഥിരമായ സ്പെസിഫിക് ഹീറ്റ് ഉണ്ടെങ്കിൽ ഇതിനെ CP യുടെ നാമത്തിൽ ഇപ്രകാരം എഴുതാം Cp vap T2 − T2 hfg|TC നമുക്കറിയാം T2 എന്നത് Tc അത് അല്ലാതെ മറ്റൊന്നല്ല അതുകൊണ്ട് ഇക്വേഷൻ ഇങ്ങനെ മാറും Cp vap T2 - TC hfg|TC അതിനാൽ അവശേഷിക്കുന്ന കാര്യം പോയിന്റ് 2ന് സമാനമായ T2' താപനില മാത്രമാണ് ഇപ്പോൾ നമുക്ക് അത് എങ്ങനെ ലഭിക്കും അതിനായി നാം ചില വ്യവസ്ഥകൾ ഉപയോഗിക്കേണ്ടതുണ്ട് കംപ്രഷൻ പ്രക്രിയയിൽ നീരാവി ഒരു ഐഡിയൽ വാതകം ആണെന്ന് അനുമാനിക്കുന്നു അവിടെനിന്ന് വളരെ എളുപ്പത്തിൽ s1 s2 എന്നിവ കിട്ടുകയും T2 എന്ന താപനില ലഭിക്കുകയും ചെയ്യും അതിനാൽ ഈ പരിമിതമായ ഡാറ്റാ പോയിന്റുകളെക്കുറിച്ചുള്ള അറിവ് ഉപയോഗിച്ച് നമുക്ക് അനുയോജ്യമായ റഫറൻസിലൂടെ പ്രവർത്തനക്ഷമത കണ്ടുപിടിക്കുവാൻ കഴിയും ഇനിയും നമുക്ക് ഒരു ഉദാഹരണം നോക്കാം R134a ഒരു റഫ്രിജറന്റായി ഉപയോഗിക്കുന്ന ഒരു റഫ്രിജറേഷൻ സിസ്റ്റത്തിന് പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത് ഇത് കണ്ടൻസറിനും ഇവപൊറേറിനും ഇടയിൽ പ്രവർത്തിക്കുന്നത് ഒരു ഐഡിയൽ വേപ്പർ കംപ്രഷൻ സൈക്കിളിലാണ് റഫ്രിജറേറ്റർ ഫ്ലോ റേറ്റ് നൽകിയിട്ടുണ്ട് നിരവധി കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഉണ്ട് അതിനാൽ ഇവിടെ ഒരു പ്രവർത്തന മാധ്യമമായി R134a ഉപയോഗിക്കുന്നു അതിനായി പ്രോപ്പർട്ടി പട്ടിക ഉപയോഗിക്കണം അനുബന്ധ പ്രോപ്പർട്ടി പട്ടിക കണ്ടുപിടിച്ചാൽ ഇതിൻറെ പ്രവർത്തനക്ഷമത കണ്ടു പിടിക്കാൻ പറ്റും നിങ്ങളുടെ ബാഷ്പീകരണ മർദ്ദം PE 0 14 MPa ആണെന്ന് കരുതുക എങ്കിൽ h1 എന്ന് പറയുന്നത് കൂടാതെ h1 hg|PE 239 15 kJkg s1 sg|PE 0 94456 kJkgK ഇനിയും പോയിൻറ് മൂന്നിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാം PC 0 8 MPa അതുകൊണ്ട് h3 hf|PC 95 47 kJkg പ്രോസസ് 3 4 എന്നത് ത്രോട്ട്ലിങ് പ്രോസസ് ആണ് അതുകൊണ്ട് h4 h3 ഇനി പോയിൻറ് 2 നോക്കാം s2 s1 കൂടാതെ P2 PC ഇതുപയോഗിച്ച് സൂപ്പർഹീറ്റ്ഡ് വേപ്പർ ടേബിളിൽ നിന്ന് h2 ൻറെ മൂല്യം 275 ഇങ്ങനെ ലഭിക്കും അത്തരം പ്രക്രിയകൾക്കായി വെള്ളം ഒരു പ്രവർത്തന മാധ്യമമായി ഉപയോഗിക്കുന്ന അനേകം പ്രശ്നങ്ങൾ ഇതിനകം നമ്മൾ പരിഹരിച്ചു അതിനാൽ മൂല്യം എങ്ങനെ നേടാമെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് R134a പട്ടിക ആവശ്യമാണ് അതിനാൽ നിങ്ങൾക്കവയെല്ലാം ലഭിച്ചുകഴിഞ്ഞാൽ ആവശ്യമായ പാരാമീറ്ററുകൾ എളുപ്പത്തിൽ കണക്കാക്കാൻ കഴിയും കൂളിംഗ് നിരക്ക് ലഭിക്കണമെങ്കിൽ 𝑄𝐸 𝑚 ℎ1 − ℎ4 ഈ കേസിൽ അത് 7 18kW ആണ് ഹീറ്റ് പുറന്തള്ളപ്പെടുന്ന തോത് ഇവിടെ 𝑄𝐶 𝑚 ℎ2 − ℎ3 ഇത് 9 0 kWആണ് കംപ്രസ്സർ ന് വേണ്ട പവർ 𝑊𝐶 𝑚ℎ2 − ℎ1 ഇതിന് ഇത്തരത്തിൽ എഴുതാം 𝑄𝐶 − 𝑄𝐸 ഇത് കണക്കുകൂട്ടിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഉത്തരം 1 ഇത് സംയോജിപ്പിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന COP 𝐶𝑂𝑃 𝑄𝐸 3 97 𝑊𝐶 കംപ്രഷൻ കൊടുക്കുന്ന ഓരോ ഇൻപുട്ട്ലും നമുക്ക് നാലിരട്ടി റഫ്രിജറേഷൻഎഫക്റ്റ് ലഭിക്കും ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ജോലി തരികയാണ് ഇവിടെ ത്രോട്ട്ലിങ് വാൽവിന് പകരം ഒരു ടർബൈൻ ഉപയോഗിക്കുകയാണെങ്കിൽ 3 മുതൽ 4 മുതൽ വരെയുള്ള പ്രക്രിയ 3 മുതൽ 4s വരെ ആയി മാറും അതിൽ 4s എന്നു പറയുന്നത് ടർബൈൻൻറെ വെളിയിൽ വരുന്ന ഘട്ടമാണ് ഈ ഓരോ ഘടകങ്ങൾക്കും ഈ കണക്കുകൂട്ടലുകൾ വീണ്ടും ചെയ്തു നോക്കുക ഇവിടെ നമുക്ക് വേണ്ട ഇൻഫർമേഷൻ h4s മാത്രമാണ് അത് ഇത്തരത്തിൽ കണക്കാക്കാം s3 s4s അതിനാൽ ഇവിടെ നിന്ന് s3 ന്റെ മൂല്യം നിങ്ങൾക്ക് നേടാനും പോയിന്റ് 4s ന്റെ ഗുണനിലവാരം കണക്കാക്കാനും കഴിയും ആ ഗുണനിലവാരത്തിൽ നിന്ന് നിങ്ങൾക്ക് h4s നേടാൻ കഴിയും തുടർന്ന് നിങ്ങൾക്ക് ഈ എല്ലാ പാരാമീറ്ററുകളുടെയും കണക്കുകൂട്ടൽ ആവർത്തിക്കാം ഈ കേസിൽ COP ഏകദേശം 5 07 ആയിരിക്കും ഇത് നിങ്ങൾ ത്രോട്ടിലിംഗ് ഉപകരണത്തിന് പകരം ഒരു ടർബൈൻ ഉപയോഗിക്കുകയാണെങ്കിൽ അന്തിമ മൂല്യത്തിൽ 25 മുതൽ 30 വരെ വർദ്ധനവുണ്ടാകും പക്ഷേ ഇത് പ്രായോഗികമായി വളരെ ബുദ്ധിമുട്ടാണ്

Refer Slide Time 3818 ഇപ്പോൾ ഒരു യഥാർത്ഥ സാഹചര്യത്തിൽ ഇവിടെ കാണിച്ചിരിക്കുന്നതുപോലെ നിങ്ങളുടെ SSS സൈക്കിളിൽ നിരവധി ക്രമക്കേടുകളോ മാറ്റാനാവാത്തവയോ ഉണ്ടാകാം ഇവിടെ കംപ്രസ്സറിന് ഐസന്റ്രോപിക് കാര്യക്ഷമത കൈവരിക്കാൻ കഴിയുന്നതുപോലുള്ള നിരവധി കാര്യങ്ങൾ ഉണ്ടായിരിക്കാം അതിനാൽ പോയിന്റ് 1 ൽ നിന്ന് ആരംഭിക്കുന്നതിനുപകരം നിങ്ങൾ പോയിന്റ് 2ൽ എത്തുകയാണെങ്കിൽ 2ൽ എവിടെയെങ്കിലും എത്തിച്ചേരാം അതിനാൽ കംപ്രസ്സറിനായി ഒരു ഐസന്റ്രോപിക് കാര്യക്ഷമത നിർവചിക്കേണ്ടതുണ്ട് അതിനാൽ കംപ്രസ്സറിനുള്ള ഐസന്റ്രോപിക് കാര്യക്ഷമത ηc ആണ് ഈ സാഹചര്യത്തിൽ ഐസെൻട്രോപിക് പ്രക്രിയ പിന്തുടരുന്ന ആവശ്യമായ ഏറ്റവും കുറഞ്ഞ വർക്ക് ഇൻപുട്ടിന് തുല്യമായിരിക്കും അതായത് h2 − h1 എന്നത് യഥാർത്ഥ പ്രവർത്തന ഇൻപുട്ട് ആവശ്യകതയാൽ ഹരിക്കപ്പെടുന്നു അതിന് h2 − h1 ആവശ്യമാണ് അതിനാൽ ഇവിടെ മർദ്ദ നില തുല്യമായിരിക്കണം അതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ h2 ന്റെ മൂല്യം കണക്കാക്കാംഅല്ലെങ്കിൽ പോയിന്റ് 2' കണ്ടെത്താം കംപ്രസ്സർ എക്സിറ്റിൽ നിന്ന് റഫ്രിജറന്റ് നീങ്ങുകയും അത് പോയിന്റ് 2 നും 3 നും ഇടയിലുള്ള കണ്ടൻസറിലെത്തുകയും ചെയ്യുന്നുവെങ്കിൽ നമുക്ക് കുറച്ച് സമ്മർദ്ദ നഷ്ടം സംഭവിക്കാം അതുപോലെ കണ്ടൻസർ മുതൽ ത്രോട്ട്ലിംഗ് വാൽവ് വരെ ത്രോട്ട്ലിംഗ് വാൽവ് എക്സിറ്റ് മുതൽ ഇവപൊറേറ്റർ വരെ നമുക്ക് ഗണ്യമായ അളവിൽ മർദ്ദം നഷ്ടപ്പെടും അതിനാൽ ഒരു യഥാർത്ഥ സൈക്കിൾ വിശകലനം ചെയ്യുമ്പോൾ ഈ മർദ്ദ നഷ്ടങ്ങളെല്ലാം കണക്കിലെടുക്കേണ്ടതുണ്ട് Refer Slide Time 3942 എനിക്ക് ഇവിടെയുള്ള ഉദാഹരണം പോലെ നേരത്തെ ഉപയോഗിച്ച അതേ റഫ്രിജറേറ്ററിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് എന്നാൽ ഇവിടെ ഈ സൈക്കിളിൽ 0 14MPa −10 0C ൽ നിൽക്കുന്ന സൂപ്പർഹീറ്റഡ് വേപ്പർ കംപ്രസ്സറിലേക്ക് പ്രവേശിക്കുന്നു കംപ്രസർ ഇൻലെറ്റ്ൽ സാച്ചുറേറ്റഡ് വേപ്പർ അല്ല സൂപ്പർഹീറ്റ്ഡ് വേപ്പർ ആണ് കംപ്രസ്സറിലെ ഏതെങ്കിലും തരത്തിലുള്ള ദ്രാവക സാന്നിധ്യം പൂർണ്ണമായും ഒഴിവാക്കാൻ പലപ്പോഴും ഇത് ചെയ്യുന്നു 2s എന്ന് പോയിൻറ് എത്തേണ്ടതിനുപകരംഅത് പോയിൻറ് 2 ലാണ് എത്തിയത് അവിടുത്തെ അവസ്ഥ 0 8 MPa 500C എന്നതാണ് കണ്ടൻസർ ൽ റെഫ്രിജറന്റ് 26 0C 0 72 MPa എന്ന അവസ്ഥയിലേക്ക് തണുക്കും കണ്ടൻസർ ൻറെ ഇൻലെറ്റ് മർദ്ദം 0 8 MPa ഉം ഔട്ട്ലെറ്റ് മർദ്ദം 0 72 MPa ഉം ആണ് ഏകദേശം 0 08 MPa അല്ലെങ്കിൽ 0 8 bar മർദ്ദം ഇവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട് കൂടാതെ കണ്ടൻസർ എക്സിറ്റ് അവസ്ഥ സാച്ചുറേറ്റഡ് ദ്രാവകമല്ല മറിച്ച് അത് സബ് കൂൾഡ് ദ്രാവകമാണ് ചില സമയങ്ങളിൽ ഇതിൽ നിന്ന് കൂടുതൽ ശീതീകരണ പ്രഭാവം നേടിയെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ഇത് 0 15 MPa ലേക്ക് ത്രോട്ടിലാകുന്നു അതിനാൽ ഇത് ഇവപൊറേറ്റർ ഇൻലെറ്റിൽ നിന്ന് ഇവപൊറേറ്റർ എക്സിറ്റിലേക്ക് പോകുമ്പോൾ 0 01 MPa മർദ്ദം നഷ്ടപ്പെടും ബന്ധിപ്പിക്കുന്ന പൈപ്പുകളിലെ മർദ്ദം നഷ്ടപ്പെടുന്ന ഏതെങ്കിലും താപ കൈമാറ്റം അവഗണിച്ച് നമുക്ക് കൂളിംഗ് റേറ്റ് താപ നിരസിക്കൽ നിരക്ക് കംപ്രസർ പവർ ആവശ്യകത സൈക്കിൾ COP എന്നിവ നിർണ്ണയിക്കേണ്ടതുണ്ട് അതിനാൽ എല്ലാ സ്റ്റേറ്റ് പോയിന്റുകളായ 1 2 3 4 എന്നിവയുടെ മൂല്യങ്ങൾ ലഭിക്കേണ്ടതുണ്ട് തുടർന്ന് പട്ടികയിൽ നിന്ന് എന്തൽപി മറ്റ് ആവശ്യമായ പാരാമീറ്ററുകൾ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ കഴിയും ഇവിടെ ഞാൻ അന്തിമ മൂല്യം നൽകുന്നു ഈ കേസിൽ COP 3 93 ന് തുല്യമായിരിക്കും അതിനാൽ COP ന് നേരിയ കുറവുണ്ടായി പക്ഷേ ഇവപൊറേഷൻ ലോഡായ QdotE അല്ലെങ്കിൽ കൂളിംഗ് കപ്പാസിറ്റി 7 അതിനാൽ മുമ്പത്തേതിനേക്കാൾ അതും മാറ്റിയിരിക്കുന്നു സ്വന്തമായി കണക്കുകൂട്ടി ഇതിൻറെ മൂല്യങ്ങൾ കണ്ടുപിടിക്കുക ഇപ്പോൾ വേപ്പർ കംപ്രഷൻ റഫ്രിജറേഷൻ സൈക്കിളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന റഫ്രിജറന്റിനെക്കുറിച്ച് 10 മിനിറ്റ് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു റഫ്രിജറന്റുകൾക്ക് മൂന്ന് തരം ഉണ്ട് ആദ്യത്തേത് പ്രകൃതിദത്ത റഫ്രിജറന്റാണ്നാച്ചുറൽ റെഫ്രിജറന്റ് നിരവധി നാച്ചുറൽ റെഫ്രിജറന്റ് ഉണ്ടെങ്കിലും അവയിൽ മൂന്നെണ്ണത്തിനെ പറ്റിയാണ് ഞാൻ ഇവിടെ പരാമർശിക്കുന്നത് ഒന്ന് അമോണിയയാണ് ആദ്യകാല റഫ്രിജറേറ്റർകളിൽ അമോണിയ ആണ് ഉപയോഗിച്ചിരുന്നത് അതുകൊണ്ട് അത് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതിൻറെ ബോയിലിംഗ് പോയിൻറ് 35oC ആണ് എന്നത് വളരെ ഗുണകരമാണ് അമോണിയ പ്രവർത്തന മാധ്യമമായി ഉപയോഗിച്ച് നമുക്ക് വളരെ കുറഞ്ഞ താപനിലയിലേക്ക് പോകാൻ കഴിയും ഇതിന് നല്ല തെർമോഡൈനാമിക് ഗുണങ്ങളും ഉണ്ട് വളരെ അറിയപ്പെടുന്നതും തികച്ചും വ്യത്യസ്തമായതുമായ തെർമോഡൈനാമിക് ഗുണങ്ങൾ അതിനാൽ ഒരു റഫ്രിജറന്റ് എന്ന നിലയിൽ അമോണിയക് ഈ ഗുണങ്ങളുണ്ട് എന്നാൽ ഇതിന് ദോഷങ്ങളുമുണ്ട് അമോണിയ വിഷമയമാണ് അതിന് ദുർഗന്ധം ഉണ്ട് അതിനാൽ അത് ചുറ്റുപാടുകളിലേക്ക് ചോർന്നു കഴിഞ്ഞാൽ മറ്റ് വസ്തുക്കളോട് ചേർന്ന് രാസപ്രവർത്തനം നടക്കും ഹീറ്റ് എക്സ്ചേഞ്ചർ കണ്ടൻസർ ഇവപൊറേറ്റർ എന്നിവയിൽ ഉപയോഗിക്കുന്ന കോപ്പറും ആയി ഇത് പ്രവർത്തിക്കാൻ ഇടയുണ്ട് അതിനാൽ ശീതീകരണത്തിനായി അമോണിയ ഉപയോഗിക്കുന്നുവെങ്കിൽ ചെമ്പ് പോലുള്ള വസ്തുക്കൾ ഉപയോഗിക്കാൻ കഴിയില്ല സൈദ്ധാന്തികമായി പറഞ്ഞാൽ ബാഷ്പീകരിക്കാൻ കഴിയുന്ന ഏത് പദാർത്ഥത്തിനും ഒരു റെഫ്രിജറന്റ് ആയി പ്രവർത്തിക്കാൻ കഴിയും കാലാകാലങ്ങളായി ഉപയോഗിക്കുന്ന ചില റെഫ്രിജറന്റ്കൾ ഉണ്ട് അതിൽ ഒന്നാണ് അമോണിയ രണ്ടാമത്തേത് ആധുനിക കാലത്തും സമീപഭാവിയിലും വളരെ പ്രചാരമുള്ള ഒന്നാണ് കാർബൺ ഡൈഓക്സൈഡ് ഇത് വളരെ എളുപ്പത്തിൽ ലഭ്യമാണ് ഇത് വിഷരഹിതവും കത്തുന്നതുമാണ് അമോണിയ പോലെ വിഷാംശം ഇല്ല കാർബൺഡയോക്സൈഡ്ൻറെ ബോയിലിംഗ് പോയിൻറ് എന്ന് പറയുന്നത് 550C എന്നതാണ് ഇത് വളരെ താഴ്ന്ന താപനിലയിൽ കൊണ്ടുപോകുവാൻ സഹായിക്കുന്നു ഇതിന് വളരെ മികച്ച തെർമോഡൈനാമിക്സ് ഗുണവിശേഷങ്ങൾ ഉണ്ട് ചിലപ്പോൾ അമോണിയ യെക്കാൾ മികച്ച റെഫ്രിജറന്റ് ആയി ഇതിനെ ഉപയോഗിക്കാം പിന്നെ കാർബൺഡയോക്സൈഡ് ൻറെ പ്രശ്നം എന്ന് പറയുന്നത് അതിൻറെ ക്രിട്ടിക്കൽ താപനില വളരെ കുറവാണ് അത് ഏകദേശം 320C ആണ് ഈ താപനിലയിൽ വളരെ താഴെ മാത്രമേ ഇതിന് ഒരു ഫേസ് ചേഞ്ച് പ്രോസസ് നടക്കുകയുള്ളൂ അതിനാൽ കാർബൺ ഡൈഓക്സൈഡ് ഉപയോഗിച്ച് ഫേസ് ചേഞ്ച് നേടുന്നതിന് നിങ്ങളുടെ കണ്ടൻസറിന്റെ താപനില ഇതിനേക്കാൾ വളരെ കുറവായിരിക്കണം അതുപോലെ ഇതിന് വളരെ ഉയർന്ന പ്രവർത്തന മർദ്ദമുണ്ട് കാരണം കാർബൺ ഡൈഓക്സൈഡിന്റെ ട്രിപ്പിൾ പോയിന്റ് മർദ്ദം 5 ബാർ ആണ് അതിനാൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ദ്രാവക ഘട്ടം ലഭിക്കുന്നതിന് ഇതിന് മുകളിലുള്ള മർദ്ദത്തിൽ പ്രവർത്തിക്കണം

ദ്രാവക ഘട്ടം ഉണ്ടാക്കുന്നതിന് നമുക്ക് ട്രിപ്പിൾ പോയിൻറ് താഴെ നടക്കില്ല ഇല്ല ഇല്ല എന്നിരുന്നാലും കാർബൺ ഡൈ ഓക്സൈഡ് വളരെ പ്രയോജനപ്രദവും വലിയതോതിലുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പ്രചാരം നേടുന്നു അമോണിയ കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയുടെ പ്രശ്നം എന്ന് പറയുന്നത് അതിൻറെ ലെറ്റന്റ് ഹീറ്റ് ഓഫ് വേപോറൈസെഷൻ അല്ലെങ്കിൽ എന്തൽപി ഓഫ് വേപോറൈസെഷൻ ആണ് അതിനാൽ വലിയ തോതിലുള്ള സിസ്റ്റങ്ങൾക്ക് ഇത് കൂടുതൽ അനുയോജ്യമാണ് നേരെമറിച്ച് സൾഫർ ഡൈ ഓക്സൈഡ് ചെറുകിട സംവിധാനത്തിന് ഏറ്റവും അനുയോജ്യമായ ഒന്നാണ് ഇതിൻറെ ലെറ്റന്റ് ഹീറ്റ് ഓഫ് വേപോറൈസെഷൻ കുറവായതിനാൽ ഇതിൻറെ മാസ് ഫ്ലോ റേറ്റ് കൂടുതലാണ് എന്നാൽ സൾഫർ ഡൈ ഓക്സൈഡ് വളരെ വിഷാംശം ഉള്ളതിനാൽ ഇത് ശീതീകരണ വ്യവസായത്തിൽ വളരെ കുറവാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് റഫ്രിജറന്റുകളിലൊന്നായി വെള്ളം ഉപയോഗിക്കാം പക്ഷേ ജലത്തിന് ശീതീകരണമെന്ന നിലയിൽ വളരെ അനുകൂലമായ ഗുണങ്ങൾ ഇല്ല പ്രത്യേകിച്ചും 0 0C യിൽ വെള്ളം ഐസ് ആകുന്ന നിങ്ങൾക്കറിയാം അതിനാൽ ഇവപൊറേറ്റർ താപനില 00C ആയിരിക്കുമ്പോൾ ഇതിനെ ശീതീകരണത്തിന് ഉപയോഗിക്കാൻ കഴിയില്ല ഹൈഡ്രോകാർബണുകളും അൽപ്പം ഉപയോഗിക്കുന്നു സൾഫർ ഡയോക്സൈഡിന് മറ്റൊരു വലിയ പോരായ്മയുണ്ട് അത് വെള്ളത്തിൽ കലരുമ്പോൾ സൾഫ്യൂറിക് ആസിഡ് ഉണ്ടാകാം ഇത് ദ്രവിപ്പിച്ച് കളയും അടുത്ത തരത്തിലുള്ള റഫ്രിജറന്റുകൾ സിന്തറ്റിക് റഫ്രിജറന്റുകളാണ് സിന്തറ്റിക് റഫ്രിജറന്റുകൾ നിങ്ങൾ പേരുകൾ കേട്ടിരിക്കണം മൂന്ന് തരം ജനപ്രിയ പേരുകൾ ഉപയോഗത്തിലുണ്ട് ഒന്ന് സിഎഫ്സി സിഎഫ്സി ക്ലോറോഫ്ലൂറോകാർബണിനെ സൂചിപ്പിക്കുന്നു അതായത് ക്ലോറിൻ ഉണ്ട് ഫ്ലൂറിൻ ഉണ്ട് നമ്മൾ സംസാരിക്കുന്നത് ഹൈഡ്രോകാർബണുകളെക്കുറിച്ചാണ് പക്ഷേ അവിടെ ഹൈഡ്രജൻ ആറ്റത്തെ ഒരു തന്മാത്രയിൽ ക്ലോറിൻ ഫ്ലൂറിൻ ആറ്റങ്ങൾ മാറ്റിസ്ഥാപിച്ചിരിക്കുന്നു അപ്പോൾ നമുക്ക് എച്ച്സിഎഫ്സി ഉണ്ടാകും അതായത് ഹൈഡ്രോക്ലോറോഫ്ലൂറോകാർബൺ അവിടെ നമുക്ക് ആ ഹൈഡ്രോകാർബണിൽ ഹൈഡ്രജനും ക്ലോറിൻ ഫ്ലൂറിൻ എന്നിവയും ഉണ്ട് അടുത്തത് HFC ആണ് HCFC വെച്ച് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് ക്ലോറിൻ ഇല്ല അത് ഹൈഡ്രോഫ്ലൂറോകാർബണാണ് ഹൈഡ്രോഫ്ലൂറോകാർബൺ തന്മാത്രയിൽ നിന്ന് ക്ലോറിൻ പൂർണ്ണമായും നീക്കം ചെയ്തതാണ് ഇത് കാർബണിനൊപ്പം ഹൈഡ്രജനും ഫ്ലൂറൈനും മാത്രമാണ് അതിനാൽ ഇവ സിന്തറ്റിക് റഫ്രിജറന്റുകളാണ് CFC കളും HCFC കളും ആഭ്യന്തര റഫ്രിജറേറ്ററുകളിലും വലിയ തോതിലുള്ള ആപ്ലിക്കേഷനുകളിലും വ്യാപകമായി ഉപയോഗിച്ചു പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കാരണംHCFC നീക്കംചെയ്യപ്പെടുന്നു HFC കൂടുതലായി ആയി ഉപയോഗിക്കുന്നു അതിനാൽ ഭാവിയിൽ CFC കളും HCFC കളും പ്രവർത്തിക്കുന്ന ഒരു റഫ്രിജറേഷൻ സംവിധാനവും ഇല്ലായിരിക്കാം പക്ഷേ HFC കളിലും മറ്റ് പ്രകൃതിദത്ത റഫ്രിജറന്റുകളിലും ആയിരിക്കും കൂടുതൽ ഉപയോഗിക്കുക ക്ലോറിൻ അടിസ്ഥാനമാക്കിയുള്ള സിന്തറ്റിക് റഫ്രിജറന്റുകൾ നീക്കം ചെയ്യുക എന്നതാണ് ആശയം അതിനാലാണ് CFC കളും HCFC കളും ഘട്ടംഘട്ടമായി ഒഴിവാക്കുന്നത് നമുക്ക് മിശ്രിതങ്ങളുണ്ടാകാം നമുക്ക് അസിയോട്രോപിക് അല്ലെങ്കിൽ നോൺ അസിയോട്രോപിക് മിശ്രിതങ്ങളും ഉപയോഗിക്കാം ഇപ്പോൾ ഒരു റഫ്രിജറൻറ് തിരഞ്ഞെടുക്കുന്നതിന് ചില ഗുണഗണങ്ങൾ ആവശ്യമാണ് തെർമോഡൈനാമിക് തെർമോഫിസിക്കൽ പ്രോപ്പർട്ടികൾ ഇതിന് ആവശ്യമാണ് ആദ്യം സാച്ചുറേഷൻ പ്രഷർ ലെവലുകൾ ആണ് അതിനാൽ ഇവപൊറേറ്റർ മർദ്ദം കഴിയുന്നത്ര ഉയർന്നതായിരിക്കണം അതുപോലെ ഇവപൊറേറ്റർ താപനില കഴിയുന്നത്ര ഉയർന്നതായിരിക്കണം അതിനനുസൃതമായി ഇവപൊറേറ്റർ മർദ്ദവും കഴിയുന്നത്ര ഉയർന്നതായിരിക്കണം കാരണം അന്തരീക്ഷമർദ്ദത്തോട് അടുത്ത് ബാഷ്പീകരണ മർദ്ദം ഉയർന്നതാണെങ്കിൽ ബാഷ്പീകരണ ലൈനിലേക്ക് വായു ചോർന്നൊലിക്കുന്ന പ്രശ്നം വളരെ കുറവായിരിക്കും കൂടാതെ ചോർച്ച കുറവായിരിക്കും കൂടാതെ മർദ്ദം വർദ്ധിപ്പിക്കുക അനുബന്ധ വാതകത്തിന്റെ സ്പെസിഫിക് വോളിയം അളവ് കുറയ്ക്കുക അത് വാതകത്തിന്റെ അളവ് കുറയ്ക്കുന്നു അതിനാൽ ഉപകരണങ്ങളുടെ വലുപ്പം ചെറുതായിരിക്കും അപ്പോൾ കണ്ടൻസർ മർദ്ദം കഴിയുന്നത്ര കുറവായിരിക്കണം കണ്ടൻസർ മർദ്ദം എല്ലായ്പ്പോഴും ഇവപൊറേറ്റർ മർദ്ദത്തേക്കാൾ കൂടുതലാണ് എന്നാൽ മർദ്ദം കൂടുമ്പോൾ കൂടുതൽ കട്ടിയുള്ള പൈപ്പുകൾ ആവശ്യമായി വരും അതിനാൽ കണ്ടൻസർ മർദ്ദം നിയന്ത്രിക്കാവുന്ന തലത്തിൽ നിർത്തിയാൽ നമുക്ക് കൂടുതൽ നേർത്ത പൈപ്പുകൾ കനംകുറഞ്ഞ വാൽവുകൾ ഹീറ്റ് എക്സ്ചേഞ്ചറുകൾ എന്നിവ ഉപയോഗിക്കാം മാത്രമല്ല ഇത് പ്രവർത്തിക്കുന്നത് കൂടുതൽ സുരക്ഷിതവുമാണ് മറ്റൊരു നേട്ടം ബാഷ്പീകരിക്കപ്പെടുന്ന മർദ്ദവും കണ്ടൻസർ മർദ്ദവും പരസ്പരം അടുത്തിടപഴകുന്നുവെങ്കിൽ കംപ്രഷൻ വർക്ക് ആവശ്യകത കുറയുകയും അത് കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യും സാച്ചുറേഷൻ മർദ്ദമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ലെറ്റന്റ് ഹീറ്റ് ഓഫ് വേപോറൈസെഷൻ ഇത് കഴിയുന്നത്ര ഉയർന്ന നിലയിലായിരിക്കണം ഇത് കൂടുന്നതനുസരിച്ച് ഫെയ്സ് ചേഞ്ച് പ്രക്രിയയിൽ കൂടുതൽ ഊർജ്ജം വലിച്ചെടുക്കാൻ സാധിക്കും പ്രത്യേകിച്ച് ഇവപൊറേറ്റർ സൈഡിൽ ഇതിനാൽ കൂളിംഗ് കപ്പാസിറ്റി കൂടുന്നു അതുകൊണ്ട് ലെറ്റന്റ് ഹീറ്റ് ഓഫ് വേപോറൈസെഷൻ കൂടന്നതനുസരിച്ച് കൂടിയ QdotE ലഭിക്കുന്നു രണ്ടാമത്തെ പോയിന്റ് സ്പെസിഫിക് ഹീറ്റ് ആണ് എന്നാൽ അതിനുമുമ്പ് ഈ മൂന്ന് പോയിന്റുകളും പരസ്പരം പൊരുത്തപ്പെടുന്നില്ലെന്ന് ഞാൻ പരാമർശിക്കേണ്ടതുണ്ട് ഏതെങ്കിലുമൊന്നിനെ അപേക്ഷിച്ച് ഏതാണ് കൂടുതൽ മികവ് പുലർത്തുന്നതെന്ന് പരിശോധിക്കാൻ പലപ്പോഴും ആ മൂന്നുപേർക്കിടയിൽ എന്തെങ്കിലും തരത്തിലുള്ള ക്രയവിക്രയം നടത്തേണ്ടതുണ്ട് നീരാവിക്ക് സ്പെസിഫിക് ഹീറ്റ് കഴിയുന്നത്ര ഉയർന്നതായിരിക്കണം അതിനാൽ സൂപ്പർ ഹിറ്റിന് പോകേണ്ടതില്ല ദ്രാവകത്തിനായുള്ള സ്പെസിഫിക് ഹീറ്റ് കഴിയുന്നത്ര കുറവായിരിക്കണം കാരണം കണ്ടൻസറിൽ നമ്മൾ സബ്കൂളിംഗിനായി പോകുമ്പോൾ ഈ ദ്രാവകത്തിന് ഗണ്യമായ താപനില മാറ്റവും ത്രോട്ടിലിംഗിലെ താപനില വ്യതിയാനവും കുറഞ്ഞിരിക്കും സ്പെസിഫിക് ഹീറ്റ് അനുപാതം കുറവായിരിക്കണം കാരണം കുറഞ്ഞ അനുപാതം കംപ്രസ്സർ ഇൻറെ ജോലി കുറയ്ക്കുന്നു ഇത് ഓർമ്മിക്കേണ്ട മറ്റൊരു വസ്തുതയാണ് ക്രിട്ടിക്കൽ താപനില നിങ്ങൾ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന പരമാവധി താപനിലയേക്കാൾ കൂടുതലായിരിക്കണം ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ക്രിട്ടിക്കൽ താപനില വളരെ കുറവായതിനാൽ സാധാരണ അന്തരീക്ഷത്തിൽ താപനില ക്രിട്ടിക്കൽ താപനിലയേക്കാൾ കൂടുതലായിരിക്കാം അതിനാൽ സാധാരണ അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ഫേസ് ചേഞ്ച് വസ്തുവായി ഉപയോഗിക്കാൻ കഴിയില്ല അതിനാൽ ക്രിട്ടിക്കൽ താപനില ഉയർന്നതായിരിക്കണം ഫ്രീസിംഗ് താപനില കഴിയുന്നത്ര കുറവായിരിക്കണം എന്നിങ്ങനെ നിരവധി ചെറിയ വസ്തുതകൾ ഉണ്ട് വെള്ളത്തിന്റെ ഒരു വലിയ പോരായ്മ അതിൻറെ ഫ്രീസിംഗ് പോയിൻറ് നമ്മുടെ ഇവപൊറേറ്റർ താപനിലയുടെ വളരെ അടുത്താണ് അതിനാൽ വെള്ളം സാധാരണയായി റെഫ്രിജറന്റ് ആയി ഉപയോഗിക്കാൻ കഴിയില്ല

റെഫ്രിജറന്റ്ന് സോണിക് വെലോസിറ്റി കൂടുതലായിരിക്കണം അത് കംപ്രസ്സബിലിറ്റി എഫക്ട് ഒഴിവാക്കും റെഫ്രിജറന്റ്ന് ഉയർന്ന തെർമൽ കണ്ടക്റ്റിവിറ്റി ഉണ്ടായിരിക്കണം ഹിറ്റ് എക്സ്ചേഞ്ച്റിന് ഉയർന്ന ഹിറ്റ് ട്രാൻസ്ഫർ നൽകും മറ്റൊന്ന് വിസ്കോസിറ്റി കുറവായിരിക്കണം ഇത് ഫ്രിക്ഷനൽ നഷ്ടവും പൈപ്പ് ലൈൻ ലെ മർദ്ദ നഷ്ടവും ഒഴിവാക്കും രണ്ടാമത്തെ ഗ്രൂപ്പ് പ്രോപ്പർട്ടികൾ സുരക്ഷയും സാമ്പത്തിക അധിഷ്ഠിത പ്രോപ്പർട്ടികൾ ആണ് ഇവിടെ വിഷാംശം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പ്രകൃതിദത്ത റഫ്രിജറന്റുകളായ അമോണിയ സൾഫർ ഡൈ ഓക്സൈഡ് എന്നിവ വളരെ വിഷാംശം ഉള്ളവയാണ് R 11 R 12 പോലുള്ള സിന്തറ്റിക് റഫ്രിജറന്റുകൾ സാധാരണ അവസ്ഥയിൽ വിഷരഹിതമാണ് പക്ഷേ അവ ഏതെങ്കിലും തരത്തിലുള്ള തുറന്ന തീജ്വാലയോട് അടുക്കുമ്പോൾ അവ വളരെ വിഷവാതകങ്ങൾ ഉത്പാദിപ്പിക്കുന്നു അതിനാൽ അവ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം റഫ്രിജറന്റുകൾ കുറഞ്ഞത് അതിൻറെ പ്രവർത്തന പരിധിക്കുള്ളിൽ കത്താൻ തുടങ്ങരുത് മെറ്റീരിയൽ കോംപാറ്റിബിളിറ്റി പ്രധാനമാണ് ചെമ്പിനൊപ്പം അമോണിയയുടെ അനുയോജ്യതയെകുറിച്ചും അല്ലാത്തതിനെകുറിച്ചും നമ്മൾ സംസാരിച്ചതുപോലെ തന്നെ നിങ്ങളുടെ പൈപ്പ്ലൈനിനായി നിങ്ങൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ നിങ്ങളുടെ റഫ്രിജറന്റുമായി പൊരുത്തപ്പെടണം പ്രാരംഭ പ്രവർത്തന ചെലവും നിയന്ത്രിക്കാവുന്നതായിരിക്കണം ഒടുവിൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പാരിസ്ഥിതിക പ്രശ്നങ്ങളുടെ കാര്യത്തിൽ രണ്ട് പാരാമീറ്ററുകളെക്കുറിച്ച് സംസാരിക്കുന്നു ഒന്ന് ODP ഓസോൺ ഡിപ്ലീഷൻ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഓസോൺ കുറയാനുള്ള സാധ്യത മറ്റൊന്ന് GWP ഗ്ലോബൽ വാമിംഗ് പൊട്ടൻഷ്യൽ ആഗോളതാപന സാധ്യത ഇവ രണ്ടും ഇപ്പോൾ സംസാര വിഷയമാണ് പരിസ്ഥിതിയിലെ താപനില അളവ് വർദ്ധിപ്പിക്കുന്നതിൽ റഫ്രിജറന്റുകളുടെ സ്വാധീനത്തെക്കുറിച്ച് GWP സംസാരിക്കുന്നു GWP എങ്ങനെ കണക്കാക്കുന്നു എന്നതിന്റെ സാങ്കേതിക വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല കാർബൺ ഡൈ ഓക്സൈഡിന്റെ GWP 1 എന്ന മൂല്യത്തിലേക്ക് സ്ഥാപിച്ചിട്ടുണ്ട് മറ്റ് റഫ്രിജറന്റുകൾ ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് സ്കെയിൽ ചെയ്യുന്നത് CO നെ അപേക്ഷിച്ച് ചില റഫ്രിജറന്റുകളിൽ GWP വളരെ ഉയർന്നതാണ് ചില റഫ്രിജറന്റുകളിൽ വളരെ ചെറുതായിരിക്കാം R 12 പോലെR 12 ന്റെ ആഗോളതാപന സാധ്യത 8000 ക്രമത്തിലാണ് അതിനാൽ കാർബൺ ഡൈ ഓക്സൈഡിനെ അപേക്ഷിച്ച് ആഗോള താപനം 8000 മടങ്ങ് കൂടുതലാണ് അതേസമയം ആധുനിക റെഫ്രിജറന്റ് ആയ R134aഅതിൻറെ GWP 1500 ആണ് HFC ക്ക് ക്ലോറിൻ ഇല്ല അതുകൊണ്ട് ഓസോൺ പാളിയിൽ അതിൻറെ എഫക്ട് കുറവാണെങ്കിൽ പോലും അതിൻറെ GWP ഗണ്യമായി കൂടുതലാണ് ഇപ്പോൾ ഞാൻ ODP ലേക്ക് പോകുന്നു ഒഡിപി ഓസോൺ കുറയാനുള്ള സാധ്യതയെ സൂചിപ്പിക്കുന്നു ഒഡിപിയെ സംബന്ധിച്ചിടത്തോളം R 11 ന്റെ ODP മൂല്യം 1 ആയി സജ്ജമാക്കിയിരിക്കുന്നു ഇത് കാർബൺഡൈഓക്സൈഡിനുള്ള GWP ക്ക് സമാനമാണ് ഇതിനെ അടിസ്ഥാനമാക്കി എല്ലാം സ്കെയിൽ ചെയ്യുന്നു ചില റഫ്രിജറന്റുകൾ ഓസോൺ കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ചില റഫ്രിജറന്റുകൾ വളരെ കുറവാണ് നിങ്ങൾ സംസാരിക്കുന്ന R134a പോലെ HFC ഈ R134a നായുള്ള ഓസോൺ കുറയാനുള്ള സാധ്യത ഒരു കേവല പൂജ്യത്തിന് തുല്യമാണ് ഇത് ഓസോൺ പാളിയിൽ യാതൊരു സ്വാധീനവും ചെലുത്തുന്നില്ല പക്ഷേ ആഗോളതാപനത്തിന് കാര്യമായ സാധ്യതയുണ്ട് അൾട്രാവയലറ്റ് രശ്മികളുടെ സാന്നിധ്യത്തിൽ ഓസോണിന് ഓക്സിജനായി പരിവർത്തനം ചെയ്യാമെന്നും ക്ലോറിൻ സാന്നിദ്ധ്യം മൂലം ഈ പ്രത്യേക പ്രതികരണം വേഗത്തിലാകുമെന്നും ഓസോൺ വ്യതിചലനത്തിന്റെ ആശയം അതിനാൽ അവയുടെ തന്മാത്രാ ഘടനയിൽ ക്ലോറിൻ അടങ്ങിയിരിക്കുന്ന റഫ്രിജറന്റുകൾ ചുറ്റുപാടുകളിൽ റഫ്രിജറന്റുകൾ പുറത്തുവിടുകയും ഉയർന്ന അന്തരീക്ഷത്തിൽ എത്തുമ്പോൾ അവ സാധാരണയായി ക്ലോറിൻ വിഘടിപ്പിക്കുന്നു അല്ലെങ്കിൽ ചുറ്റുപാടിലേക്ക് സ്വതന്ത്ര ക്ലോറിൻ പുറന്തള്ളുന്നു ആ സ്വതന്ത്ര ക്ലോറിൻ ഓസോണുമായി പ്രതിപ്രവർത്തിച്ച് വീണ്ടും ഓക്സിജനായി പരിവർത്തനം ചെയ്യപ്പെടുകയും അതുവഴി അന്തരീക്ഷത്തിലെ ഓസോൺ സാന്ദ്രത കുറയുകയും ചെയ്യും ഈ ഓസോൺ കുറയാനുള്ള സാധ്യതയെയാണ് ഇവിടെ പരാമർശിക്കുന്നത് വ്യത്യസ്ത റഫ്രിജറന്റുകൾക്ക് വ്യത്യസ്ത തരം ഓസോൺ കുറയാനുള്ള സാധ്യതയുണ്ട് പ്രാഥമികമായി ഈ പരിഗണന കാരണം തന്മാത്രയിൽ ക്ലോറിൻ അടങ്ങിയിരിക്കുന്ന CFCകളും HCFCകളും അതായത് ക്ലോറോഫ്ലൂറോകാർബൺ ഹൈഡ്രോക്ലോറോഫ്ലൂറോകാർബണുകൾ എന്നിവ ഘട്ടംഘട്ടമായി നീക്കം ചെയ്യുകയാണ് ഹൈഡ്രോഫ്ലൂറോകാർബണിന് അവയുടെ തന്മാത്രാ ഘടനയിൽ ക്ലോറിൻ ഇല്ല അതിനാൽ അവയുടെ ഓസോൺ കുറയാനുള്ള സാധ്യത പൂജ്യമാണ് പക്ഷേ അവ ഇപ്പോഴും ആഗോളതാപനത്തെ കാര്യമായി സ്വാധീനിക്കുന്നു അതിനാൽ ഏതെങ്കിലും റഫ്രിജറൻറ് തിരഞ്ഞെടുക്കുമ്പോൾ പരിഗണിക്കേണ്ട വ്യത്യസ്ത പാരാമീറ്ററുകൾ ഇവയാണ് അടുത്തതായി നാം പരിഗണിക്കേണ്ടത് റഫ്രിജറന്റുകളുടെ പേരിടൽ സമ്പ്രദായത്തെ പറ്റിയാണ് അതായത് ഞാൻ സംസാരിക്കുന്നത് R 11 R 12 R 27 എന്നാൽ ഇന്ന് എനിക്ക് സമയപരിധി കഴിഞ്ഞു ഇവിടെത്ത നിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു അടുത്ത ക്ലാസ്സിൽ ഞാൻ നാമകരണ സമ്പ്രദായത്തെക്കുറിച്ച് സംസാരിക്കും തുടർന്ന് ഞാൻ വേപ്പർ കംപ്രഷന്റെ മറ്റ് ചില വശങ്ങളിലേക്കും തുടർന്ന് വേപ്പർ അബ്സോർപ്ഷൻ റഫ്രിജറേഷൻ സിസ്റ്റത്തിലേക്കും നീങ്ങും അതിനാൽ ഇന്ന് ഐഡിയൽ സ്റ്റാൻഡേർഡ് സാച്ചുറേറ്റഡ് സിംഗിൾ സ്റ്റേജ് സൈക്കിളിനെക്കുറിച്ച് സംസാരിച്ചു ഒരു സമ്പൂർണ്ണ ഡാറ്റയും പരിമിതമായ ഡാറ്റയും ഉപയോഗിച്ച് അത് എങ്ങനെ വിശകലനം ചെയ്യാമെന്ന് കണ്ടു യഥാർത്ഥ സൈക്കിളിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് ഇവിടെ നമുക്ക് മർദ്ദ നഷ്ടം റഫ്രിജറന്റുകൾ തുടങ്ങിയവ ഉണ്ടാകാം ഒടുവിൽ റഫ്രിജറന്റുകളെക്കുറിച്ചും പ്രത്യേകിച്ച് വ്യത്യസ്ത തരം റഫ്രിജറന്റുകളെക്കുറിച്ചും റഫ്രിജറന്റുകൾ തിരഞ്ഞെടുക്കുന്നതിനെ ക്കുറിച്ചും സംസാരിച്ചു റഫ്രിജറന്റുകളുടെ പേരിടൽ സമ്പ്രദായത്തെ പറ്റി ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് അടുത്ത ക്ലാസ്സിൽ ഞാൻ ഇവിടെ മുതൽ ആരംഭിക്കും അതിനാൽ അതുവരെ ഈ പ്രഭാഷണം പഠിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യമുണ്ടെങ്കിൽ എനിക്ക് വീണ്ടും എഴുതുക